ഹലോ പോസ്റ്റ് കൊളോണിയൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ഈ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നാം പോസ്റ്റ് കൊളോണിയൽ പഠനരംഗത്തെ ഏറ്റവും സ്വാധീനിച്ച വിമർശനാത്മക ശബ്ദങ്ങളിൽ ഒന്നായ സൈദ്ധാന്തികയായ ഗായത്രി ചക്രവർത്തി സ്പിവാക്കിൻറെ രചനകൾ എടുക്കാൻ പോകുന്നു ഇപ്പോൾ ഈ കോഴ്സിലെ ഈ ശ്രേണിയിലെ മുമ്പത്തെ പ്രഭാഷണങ്ങളിലൂടെ കടന്നുപോയ ശേഷം ഏറ്റവും അടിസ്ഥാനപരമായ തലത്തിൽ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾ ധാർമ്മികതയിലെ ഒരു അഭ്യാസമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് കൊളോണിയലിസം സ്വാഭാവികവൽക്കരിച്ച യൂറോകേന്ദ്രീകൃത ലോകവീക്ഷണം പൊളിച്ചുമാറ്റുകയെന്നതാണ് പോസ്റ്റ് കൊളോണിയൽ വിമർശനത്തിൻറെ പ്രധാന അജണ്ടകളിലൊന്ന് ഇത് കോളനിവത്കൃത പ്രദേശങ്ങളിൽ ഉടനീളമുള്ള നിരവധി തദ്ദേശീയ സാംസ്കാരിക ജ്ഞാന പാരമ്പര്യങ്ങളെ പാർശ്വവൽക്കരിച്ചു പോസ്റ്റ്കൊളോണിയൽ പഠനങ്ങളുടെ മറ്റൊരു അജണ്ട അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദത്തെ മുൻകൂട്ടി കാണിക്കുകയും കുറഞ്ഞത് അക്കാദമിക് സ്ഥാപനങ്ങളിൽ എങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് അതിലൂടെ കൊളോണിയലിസത്തിന് വിധേയരായ ആളുകളെ കേൾക്കാൻ കഴിയും ഈ രണ്ട് ശ്രമങ്ങളും ഈ ധാർമ്മിക ഇടപെടലുകൾ ഞാൻ അവരെ അങ്ങനെ വിളിക്കുന്നു പോസ്റ്റ്കൊളോണിയൽ പഠന മേഖലയുടെ സ്ഥാപകനായ എഡ്വേർഡ് സെയ്ദിൻറെ കൃതികളിൽ ഇതിനകം തന്നെ പ്രകടമാണ് ഗായത്രി ചക്രവർത്തി സ്പിവക്കിലും പോസ്റ്റ് കൊളോണിയലിസത്തിനെ അടിവരയിടുന്ന ഈ ധാർമ്മിക അനിവാര്യതയുടെ തുടർച്ചയാണ് നാം കാണുന്നത് ഇപ്പോൾ സ്പിവാക്കിൻറെ ധാർമ്മിക ഇടപെടൽ സബാൾട്ടേണ്മായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ ഞാൻ ജോലിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ജോലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ അക്കാദമിക് രചനകളെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുക അവ പ്രധാനമാണ് പശ്ചിമ ബംഗാളിലെ ഗ്രാമങ്ങളിലെ ഭൂരഹിതരായ നിരക്ഷരരുടെ കൂട്ടത്തിൽ അദ്ധ്യാപികയും ആക്ടിവിസ്റ്റും എന്ന നിലയിലുള്ള അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നു അതിനാൽ അക്കാദമിക് എഴുത്തുകാരി സൈദ്ധാന്തിക ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ സബാൾട്ടനുമായുള്ള അവരുടെ പ്രവർത്തനമാണ് സ്പിവാക്കിൻറെ Spivaks നൈതിക ഇടപെടലിൻറെ സവിശേഷത വാസ്തവത്തിൽ ഇന്ന് അക്കാദമിക് സർക്കിളുകളിലെങ്കിലും സ്പിവാക്കിൻറെ Spivaks പേര് "ക്യാൻ ദി സബാൾട്ടൻ സ്പീക്ക്" Can the Subaltern Speak" എന്ന വളരെയധികം സ്വാധീനം ചെലുത്തിയ ലേഖനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ സബാൾട്ടൻ എന്ന പദം വിശദീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പോസ്റ്റ്കൊളോണിയൽ പഠനമേഖലയിൽ സ്പിവാക്കിൻറെ Spivaks സംഭാവനയെക്കുറിച്ച് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് അത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സ്പിവാക്കിനെ പരിചയപ്പെടുത്തട്ടെ 1942 ൽ ഗായത്രി ചക്രവർത്തി സ്പിവക് കൊൽക്കത്തയിൽ ജനിച്ചു അത് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രാഷ്ട്രീയ നിയന്ത്രണം അതിവേഗം നഷ്ടപ്പെടുന്ന കാലമായിരുന്നു കൊളോണിയൽ ഭരണത്തിൻറെ ഈ അവസാന വർഷങ്ങൾ ദുഃഖകരമായ അക്രമത്താൽ അടയാളപ്പെടുത്തി പസഫിക് തിയേറ്റർ തുറന്നുകൊടുത്ത രണ്ടാം ലോകമഹായുദ്ധസമയത്ത് 1940 കളുടെ തുടക്കത്തിലെ ബംഗാൾ ക്ഷാമം അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് മനുഷ്യശരീരങ്ങൾ കൊൽക്കത്തയിലെ തെരുവുകളിൽ മരിക്കുകയായിരുന്നു നാം പ്രാഥമികമായി സാംസ്കാരിക കോളനിവൽക്കരണത്തിൻറെയും സാംസ്കാരിക പ്രതിരോധത്തിൻറെയും തലത്തിൽ കൊളോണിയലിസം പോസ്റ്റ് കൊളോണിയൽ പാരമ്പര്യം കൊളോണിയലിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ് മുതലായവയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നിരുന്നാലും നാം ഒരിക്കലും കൊളോണിയൽ ഭരണത്തെയും കൊളോണിയൽ കീഴ്പ്പെടുത്തലിനെയും വിശേഷിപ്പിക്കുന്ന ശാരീരിക അതിക്രമങ്ങളുടെ കാഴ്ച മറക്കരുത് എന്ന് ഞാൻ എൻറെ മുമ്പത്തെ ഒരു പ്രഭാഷണത്തിൽ പരാമർശിച്ചിരുന്നു കൊളോണിയൽ ഭരണവും ഇന്ത്യയെപ്പോലുള്ള ഒരു സ്ഥലത്ത് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനവും അതിൻറെ തിന്മയും പറഞ്ഞ മധ്യവർഗ്ഗ ദേശീയവാദികളും ഉണ്ടാക്കിയ ഏറ്റവും ഭീകരമായ അക്രമ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്പിവക് പോസ്റ്റ് കൊളോണിയൽ സൈദ്ധാന്തികരിൽ ഏറ്റവും പ്രമുഖയായി വളർന്നുവന്നു അതിനാൽ സ്പിവാക്കിൻറെ രചനകൾ വായിച്ചാൽ കുട്ടിക്കാലത്ത് അവൾക്ക് തുറന്നുകാട്ടപ്പെട്ട ഈ ക്രൂരമായ ശാരീരിക അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റും മധ്യവർഗ ദേശീയവാദികളും തമ്മിലുള്ള വിചിത്രമായ അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് നമുക്ക് കാണാം 1940 കളിൽ കൊൽക്കത്തയിൽ താമസിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ബംഗാൾ ക്ഷാമത്തിൻറെ അതിക്രമത്തെ കവച്ചു വയ്ക്കുന്നത് 1947 ൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് വ്യത്യസ്ത ദേശ രാഷ്ട്രങ്ങളായി അടയാളപ്പെടുത്തിയ ലഹള മാത്രമാണ് മധ്യവർഗ ദേശീയവാദികളും ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളും ഒരുമിച്ച് ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻറെയും ജനനത്തെ സാധ്യമാക്കിയത് അടിസ്ഥാനപരമായി ഇത് ഒരു കരാറായിരുന്നു യുഗങ്ങളായി ഉപഭൂഖണ്ഡത്തിൽ ഒരുമിച്ച് താമസിക്കുന്ന സമുദായങ്ങളെ രണ്ട് വ്യത്യസ്ത ദേശ രാഷ്ട്രങ്ങളിലെ പൌരന്മാരായി വാർത്തെടുക്കുക എന്നാണ് ഈ ഉടമ്പടി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് കൊൽക്കത്തയിൽ വളർന്നുവരുന്ന യുവ സ്പിവാക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടി സ്വാതന്ത്ര്യത്തിൻറെ അമൂർത്തമായ ആശയത്തിലേക്ക് അല്ല മറിച്ച് തെരുവുകളിലെ രക്തത്തിൻറെ യഥാർത്ഥ കാഴ്ചയിലേക്കാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് പഞ്ചാബിനെപ്പോലെ ബംഗാളും വിഭജനത്തിൻറെയും ഭീകരമായ അക്രമത്തിൻറെയും സ്ഥലമായിരുന്നു വിഭജന കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഏറ്റവും ഭയാനകമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നഗരങ്ങളിലൊന്നാണ് കൊൽക്കത്ത നാഷണലിസവും ഇമാജിനേഷനും "Nationalism and Imagination" എന്ന തൻറെ ലേഖനത്തിൽ സ്പിവക് കുട്ടിക്കാലത്ത് ആദ്യകാല ഓർമ്മകളിൽ തെരുവിൽ രക്തം കണ്ടിട്ടുള്ളത് എഴുതുന്നു അവർ ഈ പ്രസ്താവനയ്ക്ക് പ്രാധാന്യം നൽകുന്നു അവർ പറയുന്നു അത് ആലങ്കാരിക രക്തമല്ല കൊല്ലപ്പെട്ട കോളനിവത്കൃത പ്രജകളിൽ നിന്നും പുറത്തുവരുന്ന യഥാർത്ഥ രക്തമായിരുന്നു അതിനാൽ നമ്മൾ ഓർമിക്കേണ്ടതുണ്ട് കൊളോണിയലിസത്തിൻറെയും പോസ്റ്റ്കൊളോണിയലിസത്തിൻറെയും ഈ ചിത്രത്തിലെ രക്തം ആലങ്കാരികമല്ല സാംസ്കാരികമല്ല കൊളോണിയലിസത്തെ അറിയിക്കുന്ന യഥാർത്ഥ വസ്തുതയായ ശാരീരിക അതിക്രമമാണ് ദേശീയതയെന്ന ആശയത്തിലൂടെയും ദേശീയത ആവിഷ്കരിക്കുന്നതിൽ സൌന്ദര്യാത്മക ഭാവനയുടെ പങ്കിലൂടെയും ചിന്തിക്കാൻ ഒരു പോസ്റ്റ്കൊളോണിയൽ ബുദ്ധിജീവിയെന്ന നിലയിൽ സ്പിവക് പിന്നീട് ഈ ഓർമ്മകൾ ഓർമ്മിക്കുന്നുവെന്ന വസ്തുത കൊളോണിയലിസവും അതിൻറെ പാരമ്പര്യവും സദാ അടിവരയിടുന്ന ശാരീരിക അക്രമങ്ങളുമായുള്ള ഇടപെടലിൽ നിന്ന് പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തം എങ്ങനെ വളരുമെന്ന് കാണിക്കുന്നു സ്പിവക്കിന് കൊളോണിയലിസവും ദേശീയതയും അപരിഷ്കൃതമായ ശാരീരിക അതിക്രമങ്ങൾ തുറന്നുകാട്ടുന്നു കുട്ടിക്കാലത്ത് തന്നെ സ്പിവക്കിന് ഈ കൂട്ടക്കൊലയെയും അക്രമത്തെയും ചെറുക്കുന്ന ചില ശക്തികളെ കുറിച്ച് ബോധം ഉണ്ടായിരുന്നു സ്പിവക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തി പ്രാഥമികമായി ഇന്ത്യൻ പീപ്പിൾ തിയറ്റേഴ്സ് അസോസിയേഷൻറെ Indian People Theatres Association ശക്തിയായിരുന്നു ഇത് ആ കാലഘട്ടത്തിൽ തെരുവ് നാടകങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെയും ജനപ്രിയ ഗാനങ്ങളിലൂടെയും സാമൂഹ്യ അവബോധം വളർത്താൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു സ്പിവക് ഇടതുപക്ഷ കലാകാരന്മാർ നിർമ്മിച്ച ഈ തിയേറ്ററുകളും ഗാനങ്ങളും ഓർമ്മിക്കുന്നു രാഷ്ട്രീയ ഇടതുപക്ഷവും മാർക്സ് ലെനിൻ തുടങ്ങിയ ബുദ്ധിജീവികളുടെ രചനകളുമായി ഇടപഴകുന്നതും സ്പിവാക്കിൻറെ രചനയുടെ പ്രധാന സ്വഭാവങ്ങളായി തുടരുന്നു ഈ ഇടതുപക്ഷ പ്രവാഹത്തിനു പുറമെ കൊൽക്കത്ത സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയെന്ന നിലയിൽ ബ്രിട്ടീഷ് സാഹിത്യത്തെ സമഗ്രമായി മനസ്സിലാക്കുന്നതിലൂടെ സ്പിവക്കിൻറെ ചിന്താമണ്ഡലം രൂപപ്പെട്ടു 1959 ൽ ബിരുദം നേടിയ ശേഷം സ്പിവക് പടിഞ്ഞാറോട്ട് പോയി അവിടെ അമേരിക്കയിലെ കോർണൽ സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ഇതിനുശേഷം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഒരു വർഷത്തെ ഫെലോഷിപ്പ് നേടി പിഎച്ച്ഡിക്ക് ഡബ്ല്യു ബി യീറ്റിൻറെ കവിതകൾ പഠിക്കുന്നതിനായി അവർ വീണ്ടും കോർണൽ സർവകലാശാലയിൽ തിരിച്ചെത്തി പോൾ ഡി മാൻറെ മേൽനോട്ടത്തിൽ അവർ പ്രവർത്തിച്ചു ഴക്ക് ഡെറിഡയുടെ തത്ത്വചിന്തയുടെ ഉൾക്കാഴ്ചകൾ സാഹിത്യപഠന മേഖലയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് ഡി മാൻ ശ്രദ്ധേയനാണ് ഡി മാൻറെ നേതൃത്വത്തെ പിന്തുടർന്ന് സ്പിവാക്കും അക്കാദമിക് എന്ന നിലയിലുള്ള തൻറെ കരിയറിൽ ഉടനീളം അപനിർമ്മാണത്തെക്കുറിച്ച് അഭിനിവേശം കാണിക്കുന്നു അവർ 1976 ൽ ഴക്ക് ഡെറിഡയുടെ ഗ്രാമട്ടോളജിയുടെ "Grammatology" ഇംഗ്ലീഷ് പരിഭാഷ "ഓഫ് ഗ്രാമട്ടോളജി" "Of Grammatology" എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ നിരൂപകയെന്ന നിലയിൽ സ്പിവക് ആദ്യമായി അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെട്ടു വിവർത്തകൻറെ ആമുഖമായ ഒരു വിപുലമായ വ്യാഖ്യാനത്തിനൊപ്പം അവർ ഈ വിവർത്തനം പ്രസിദ്ധീകരിച്ചു അതിനു ശേഷം സ്പിവക് ഇൻ അദർ വേൾഡ്സ് ഔറ്റ്സൈഡ് ഇൻ ദി ടീച്ചിംഗ് മെഷീൻ എ ക്ററ്റീക് ഓഫ് പോസ്റ്റ് കൊളോണിയൽ റീസൻ ഡെത് ഓഫ് എ ഡിസിപ്ലിൻ അതർ ഏഷ്യ അടുത്തിടെ എസ്തെറ്റിക് എജുക്കേഷൻ ഇൻ ദി എറ ഓഫ് ഗ്ലോബലൈസേഷൻ ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നിരുന്നാലും ഈ പ്രഭാഷണത്തിൻറെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സ്പിവാക്കിൻറെ ഏറ്റവും സ്വാധീനം ഉള്ളതും തിരിച്ചറിയാവുന്നതുമായ കൃതി "ക്യാൻ ദി സബാൾട്ടൻ സ്പീക്ക്" Can the Subaltern Speak ആണ് ഈ ലേഖനത്തിൻറെ ആദ്യ പതിപ്പ് 1985 ൽ വെഡ്ജ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ ഈ ലേഖനത്തിന് നിരവധി പതിപ്പുകളുണ്ട് നമുക്ക് ഇപ്പോൾ സബാൾട്ടൻ എന്ന സങ്കൽപ്പത്തിലേക്കും സ്പിവക് ലേഖനത്തിൻറെ തലക്കെട്ടിൽ ചോദിക്കുന്ന "ക്യാൻ ദി സബാൾട്ടൻ സ്പീക്ക്" Can the Subaltern Speak എന്ന ചോദ്യത്തിലേക്കും തിരിയാം ആരാണ് അല്ലെങ്കിൽ എന്താണ് സബാൾട്ടൻ എന്ന് പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങുന്നതിനുമുമ്പ് ഉത്തരം പറയാൻ തുടങ്ങുന്നതിനു മുമ്പ് സബാൾട്ടണിന് സംസാരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് സബാൾട്ടൻ എന്ന ആശയത്തിൻറെ സ്ഥാപകയായി സ്പിവാക്കിനെ ഇടയ്ക്കിടെ തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും ഈ ആശയം അവരുടെ രചനകളിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത് വാസ്തവത്തിൽ സ്പിവാക്ക് "ക്യാൻ ദി സബാൾട്ടൻ സ്പീക്ക്" Can the Subaltern Speak എന്ന ഉപന്യാസത്തിൽ സബാൾട്ടൻ എന്ന ആശയത്തിൻറെ പതിപ്പുകളുമായി ഇടപഴകുന്നത് നമുക്ക് കാണാം പ്രസ്തുത ആശയം അവരുടെ ലേഖനം വരുന്നതിനു മുമ്പ് തന്നെ ശക്തമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് സബാൾട്ടൻ എന്ന പദം ഉടനടി സ്പിവാക്കിൻറെ പേരുമായി കൂട്ടിച്ചേർക്കുന്നുവെന്ന വസ്തുത സബാൾട്ടൻ എന്ന സങ്കല്പത്തെ വിശദീകരിക്കുന്നതിൽ സ്പിവാക്ക് ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ചിലത് നമ്മോട് പറയുന്നു ഇപ്പോൾ നമുക്ക് വീണ്ടും സബാൾട്ടൻ എന്ന വാക്കിലേക്ക് മടങ്ങാം ആദ്യം ഒരു നിഘണ്ടു എടുത്ത് അത് നമ്മോട് എന്താണ് പറയുന്നതെന്ന് കാണുക ഇതെൻറെ ഇഷ്ടമുള്ള ഒരു ശീലമാണ് നിങ്ങൾ നിഘണ്ടു പരിശോധിച്ചാൽ സബാൾട്ടൻ എന്ന വാക്കിൻറെ യഥാർത്ഥ അർത്ഥം ജൂനിയർ റാങ്ക് മിലിട്ടറി ഓഫീസർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സബാൾട്ടൻ എന്ന വാക്കിൻറെ ഈ പ്രത്യേക ഉപയോഗം ഇന്നും സൈന്യത്തിൽ വളരെ പ്രചാരത്തിലുണ്ട് വിമർശനാത്മക സിദ്ധാന്തത്തിൻറെ മേഖലയിൽ ഈ പദം ഇരുപതാം നൂറ്റാണ്ടിൻറെ തുടക്കത്തിൽ ഇറ്റാലിയൻ ബുദ്ധിജീവിയായ അന്റോണിയോ ഗ്രാംഷിയുടെ രചനകളിലൂടെ കണ്ടെത്താൻ കഴിയും വളരെ പ്രമുഖ മാർക്സിസ്റ്റ് ബുദ്ധിജീവിയും സൈദ്ധാന്തികനും ആയ ഗ്രാംഷി ആധിപത്യ ഗ്രൂപ്പുകൾക്കോ വർഗ്ഗങ്ങൾക്കോ വിധേയരായ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കാൻ സബാൾട്ടൻ എന്ന പദം ഉപയോഗിച്ചു ഈ നിർവചനം മനസിലാക്കാൻ നാം ഹീജെമനി എന്ന ആശയം ഗ്രാംഷിയുടെ രചനകളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻറെ ലളിതമായ രൂപത്തിൽ ഹീജെമനി അധികാരം പ്രയോഗിക്കുന്ന ഒരു രീതിയായി മനസ്സിലാക്കാം അധികാര സങ്കൽപ്പത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ക്രൂരമായ ശാരീരിക ബലപ്രയോഗത്തിലൂടെയാണ് അധികാരം ഉറപ്പിക്കാനും സ്ഥിരീകരിക്കാനും കഴിയുന്ന ഏറ്റവും വ്യക്തമായ മാർഗ്ഗം എന്ന് കാണാവുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു തോക്കുണ്ടെങ്കിൽ എൻറെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലും എൻറെ സ്വാർത്ഥ താൽപര്യം നിറവേറ്റുന്നതിലും എനിക്ക് നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിയും അത് നിങ്ങളുടെ മേൽ എൻറെ അധികാരം ഉറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിരിക്കും അത് വളരെ ലളിതമായി മനസ്സിലാക്കാം ഉദാഹരണമായി പോലീസ് സേന വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സമൂഹത്തിൽ ഈ അധികാരം സ്ഥാപിക്കുന്നതും പ്രയോഗിക്കുന്നതും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും എന്നിരുന്നാലും അന്റോണിയോ ഗ്രാംഷി വാദിക്കുന്നത് മറ്റൊരാളുടെ മേൽ ഒരാളുടെ അധികാരം പ്രയോഗിക്കാൻ മറ്റൊരു വഴിയുണ്ട് ഉദാഹരണത്തിന് എൻറെ സ്വാർത്ഥ താൽപര്യം നിറവേറ്റുന്നതിനായി എൻറെ നന്മയിൽ ഞാൻ ചെയ്യുന്നതെന്തും നിങ്ങളുടെ നന്മയെ സഹായിക്കുന്നുവെന്ന് എങ്ങനെയെങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ സ്വാർത്ഥ താൽപര്യത്തിലും കൂടിയാണ് ഇത് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ശാരീരിക ബലപ്രയോഗം നടത്തുന്നതിനേക്കാൾ നിങ്ങളുടെ മേൽ എൻറെ അധികാരം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗമാണിത് കാരണം എൻറെ സ്വാർത്ഥ താൽപര്യമാണ് നിങ്ങളുടെ സ്വാർത്ഥതാൽപര്യമെന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ എൻറെ സ്വാർത്ഥതാൽപര്യത്തിനായി ചെയ്യേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യും അതായത് ബാഹ്യശക്തിയില്ലാതെ നിങ്ങൾ അത് മനപൂർവ്വം ചെയ്യും കാരണം എന്നെ സേവിക്കുന്നതെന്തും നിങ്ങൾക്ക് നല്ലതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി ഗ്രാംഷി പറയുന്നതനുസരിച്ച് ഒരു സമൂഹത്തിനുള്ളിൽ ഭരണവർഗം നിർബന്ധിതമല്ലാത്ത രീതിയിലൂടെ അതിൻറെ അധികാരം കൂടുതലും സ്വയം അവകാശപ്പെടുന്നു ഉറപ്പിക്കുന്നു അതായത് ഭരണവർഗത്തിൻറെ താൽപ്പര്യം ജനങ്ങളുടെയും താൽപ്പര്യമാണെന്ന് മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക വിഭാഗം മറ്റ് ജനവിഭാഗങ്ങളെക്കാൾ രാഷ്ട്രീയ അധികാരത്തിൻറെ നിർബന്ധിതമല്ലാത്ത ഈ വാദത്തെ ഗ്രാംഷി ഹീജെമനി എന്ന് വിളിക്കുന്നു അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹീജെമനി അതിൻറെ ലളിതമായ രൂപത്തിൽ യഥാർത്ഥത്തിൽ അധികാരം ഉറപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഹീജെമനി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസിലാക്കാൻ നമുക്ക് നമ്മുടെ മുൻ പ്രഭാഷണങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് മടങ്ങാം അതിൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ആരോപണത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികളിൽ ഭൂരിഭാഗവും ഒരു പ്രത്യേക സാമൂഹിക വിഭാഗത്തിൽ പെട്ടവരാണെന്ന് നാം കണ്ടതാണ് സുമിത് സർക്കാറിനെ പിന്തുടർന്ന് ഞാൻ ആ സാമൂഹിക വിഭാഗത്തെ മധ്യവർഗം എന്ന് പരാമർശിച്ചു ഉദാഹരണത്തിന് സി ആർ ദാസ് അല്ലെങ്കിൽ എം കെ ഗാന്ധി ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ആരുമാകട്ടെ ഈ ആളുകളെല്ലാം സമാനമായ തൊഴിൽ പാതകൾ പങ്കിടുന്നതെങ്ങനെയെന്ന് നാം കണ്ടു പക്ഷേ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ മധ്യവർഗ വീരന്മാരായിട്ടല്ല മറിച്ച് ദേശീയ നായകന്മാരായി സങ്കൽപ്പിക്കുന്നു അവർ സംസാരിച്ചത് ഒരു പ്രത്യേക വർഗ്ഗത്തിന് മധ്യവർഗത്തിന് വേണ്ടിയല്ല മറിച്ച് മുഴുവൻ രാജ്യത്തിനും വേണ്ടിയാണ് മധ്യവർഗ നായകന്മാരെ ദേശീയ നായകന്മാരായി അംഗീകരിക്കുന്നതാണ് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യയിൽ മധ്യവർഗം മറ്റെല്ലാ ജനസമൂഹത്തിനു മുകളിലും പ്രയോഗിച്ച ഹീജെമനിയുടെ ഉദാഹരണമെന്ന് ഗ്രാംഷി വാദിക്കും മധ്യവർഗത്തിന് ഉപഭൂഖണ്ഡത്തിനകത്ത് താമസിക്കുന്ന മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും മധ്യവർഗത്തിൻറെ താൽപര്യമാണ് ദേശീയ താൽപര്യമെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അതിനാൽ ഗ്രാംഷി പറയുന്നതനുസരിച്ച് അദ്ദേഹം സ്ഥിതിഗതികൾ വായിച്ചാൽ ഇതുപോലെയായിരിക്കും പോസ്റ്റ്കൊളോണിയൽ ഇന്ത്യയെ മധ്യവർഗത്തിൻറെ ഹീജെമനി കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു അവിടെ അവരുടെ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതെന്തും രാജ്യത്തിൻറെ താൽപ്പര്യത്തിനാണ് എന്ന് മധ്യവർഗത്തിന് മുഴുവൻ ജനതയെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു അതുകൊണ്ടാണ് എം ഗാന്ധി ജവഹർലാൽ നെഹ്റു സി ദാസ് സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെ ഒരു പ്രത്യേക വിഭാഗത്തിലെ നായകന്മാരായി അല്ലെങ്കിൽ പ്രതിനിധികളായി അല്ല മറിച്ച് ദേശീയ പ്രതിനിധികളായി നാം കണക്കാക്കുന്നത് 1980 കളിൽ സബാൾട്ടൻ സ്റ്റഡീസ് കളക്റ്റീവ് രൂപീകരിച്ച ദക്ഷിണേഷ്യൻ ചരിത്രകാരന്മാരുടെ സ്വാധീനമുള്ള ഗ്രൂപ്പാണ് സബാൾട്ടൻ എന്ന പദത്തെക്കുറിച്ചുള്ള ഈ ഗ്രാംഷിയൻ ധാരണ സ്വീകരിച്ചത് സബാൾട്ടൻ സ്റ്റഡീസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സബാൾട്ടൻ സ്റ്റഡീസ് കളക്റ്റീവ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ ചരിത്രകാരന്മാർ പ്രാഥമികമായി പോസ്റ്റ്കൊളോണിയൽ സൊസൈറ്റികൾ പോസ്റ്റ്കൊളോണിയൽ ഇന്ത്യ പോസ്റ്റ്കൊളോണിയൽ സൌത്ത് ഏഷ്യ എന്നിവ പഠിക്കുന്നു ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ചരിത്രകാരൻ രണജിത് ഗുഹ അദ്ദേഹം "ഓൺ സം ആസ്പെറ്റ്സ് ഓഫ് ദി ഹിസ്റ്റോറിയോഗ്രാഫി ഓഫ് കൊളോണിയൽ ഇന്ത്യ" "On Some Aspects of the Historiography of Colonial India" എന്ന ലേഖനത്തിൽ സബാൾട്ടൻ സ്റ്റഡീസ് കളക്റ്റീവ് എന്ന ഗ്രൂപ്പ് എങ്ങനെയാണ് സബാൾട്ടൻ എന്ന പദം ഉപയോഗിച്ചതെന്നതിൻറെ ഒരു വിവരണം നൽകുന്നു സബാൾട്ടൻ എന്ന പദം വരേണ്യവർഗ്ഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തൻറെ ലേഖനത്തിൽ ഗുഹ എഴുതുന്നു കൂടാതെ ഗുഹ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പ്രത്യേക ലേഖനത്തിൽ കൊളോണിയൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ എലൈറ്റ് എന്ന പദത്തിൽ യൂറോപ്യൻ കോളനിക്കാർ മാത്രമല്ല ഉൾപ്പെടുന്നത് വലിയ ഭൂവുടമകളുടെ കാര്യത്തിൽ കൊളോണിയൽ സർക്കാരുമായുള്ള ബന്ധം അല്ലെങ്കിൽ അവരുടെ പാശ്ചാത്യ ശൈലിയിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ വ്യാവസായിക വ്യാപാര ബൂർഷ്വാസിയുടെ കാര്യത്തിൽ സമ്പത്തിലൂടെ ഹീജെമനി നേടിയ പ്രബലരായ തദ്ദേശീയ ഗ്രൂപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു അങ്ങനെ പൊതുവായ സാഹചര്യത്തിൽ എലൈറ്റ് എന്ന പദം ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അവയ്ക്ക് രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഏജൻസി അവകാശം രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ അവരുടെ താൽപ്പര്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള അധികാരവുമുണ്ട് അതാണ് വരേണ്യവർഗം എന്നു പറയുന്നത് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഇടപെടാനും ആവിഷ്കരിക്കാനും കഴിയുന്നവരാണ് വരേണ്യവർഗങ്ങൾ ഗുഹ സബാൾട്ടണിനെ നിർവചിക്കുന്നു കാരണം സബാൾട്ടൻ എലൈറ്റിൻറെ വിപരീതമാണ് അതിനാൽ ഒരു സമൂഹത്തിൽ വരേണ്യ വിഭാഗത്തിൽ പെടാത്ത എല്ലാ ആളുകളേയും ഗുഹ സബാൾട്ടൻ എന്ന് നിർവചിക്കുന്നു അതിനാൽ ഇവിടെ സബാൾട്ടൻ ഒരു പ്രത്യേക വർഗ്ഗം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ വംശം എന്ന് നിർവചിച്ചിട്ടില്ല മറിച്ച് സബാൾട്ടൻ ഒരു നെഗറ്റീവ് ഇടത്തെ അല്ലെങ്കിൽ നെഗറ്റീവ് പൊസിഷനെ പ്രതിനിധീകരിക്കുന്നു അത് നിരാകരണം സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ ഏജൻസി ഇല്ലാത്ത എതിർപ്പ് സ്വത്വമില്ലാത്ത എതിർപ്പ് എന്നിവയുടെ സ്ഥാനമാണ് ഇപ്പോൾ സ്പിവാക്കും "ക്യാൻ ദി സബാൾട്ടൻ സ്പീക്ക്" "Can the Subaltern Speak" എന്ന ലേഖനവും ഞാൻ പറഞ്ഞതുപോലെ സബാൾട്ടേണിൻറെ നിലവിലുള്ള ഈ നിർവചനങ്ങളുമായി ഇടപഴകുന്നു അതിനാൽ അന്റോണിയോ ഗ്രാംസിയുമായും ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച രണജിത് ഗുഹയുടെ ലേഖനവുമായും അവർ ഇടപഴകുന്നു സ്പിവാക്കിനെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാൻ കഴിയാത്തതാണ് ഈ സബാൾട്ടൻ സ്ഥാനത്തിൻറെ സവിശേഷത അവിടെ നിന്ന് ഒരു സംഭാഷണവും സാധ്യമല്ല എന്നതാണ് അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്പിവാക്കിൻറെ അഭിപ്രായത്തിൽ "ക്യാൻ ദി സബാൾട്ടൻ സ്പീക്ക്" "Can the Subaltern Speak" എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അസന്ദിഗ്ദ്ധമായും അല്ല എന്നാണ് സബാൾട്ടണിന് സംസാരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഈ വാദത്തിൻറെ ചുരുക്കം പലപ്പോഴും സ്പിവാക്കിൻറെ ഉദ്ദേശ്യത്തെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു സബാൾട്ടേണിനെ നിശബ്ദരാക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് അവർ വിമർശിക്കപ്പെട്ടു പക്ഷേ സംസാരിക്കുന്നത് വ്യവഹാരത്തെ സൃഷ്ടിക്കുന്നതായി മനസ്സിലാക്കുന്നുവെങ്കിൽ സ്പിവാക്കിൻറെ വാദം മനസ്സിലാക്കാൻ വളരെ ലളിതമാണ് ഇപ്പോൾ മിഷേൽ ഫൂക്കോയെയും വ്യവഹാരത്തെയും കുറിച്ചുള്ള നമ്മുടെ ആദ്യകാല പ്രഭാഷണങ്ങളിലൊന്നിൽ നാം വ്യവഹാരത്തെ അർത്ഥവത്തായ ഉച്ചാരണങ്ങളായി നിർവചിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ ഓരോ സമൂഹത്തിലും ചില ഉച്ചാരണങ്ങളെ വ്യവഹാരമായി അംഗീകരിക്കാനും മറ്റുള്ളവ നിരസിക്കാനും അനുവദിക്കുന്ന നിയന്ത്രണങ്ങളും ഫിൽട്ടറുകളും എങ്ങനെ ഉണ്ടെന്നും നാം ചർച്ച ചെയ്തിരുന്നു അതിനാൽ സൈദ്ധാന്തികമായി സൂര്യനു കീഴിലുള്ള ഏതൊരു വിഷയത്തിലും ആർക്കും അനന്തമായി സംസാരിക്കാനോ എഴുതാനോ കഴിയുമെങ്കിലും എന്താണ് വ്യവഹാരമായി അംഗീകരിക്കപ്പെടുന്നത് വ്യവഹാരം അല്ല എന്ന് ആത്യന്തികമായി നിർണ്ണയിക്കുന്നത് സമൂഹത്തെ ബലപ്പെടുത്തുന്ന പവർ സമവാക്യങ്ങളാണ് ഇത് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ് അതിനാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറയാം ഉദാഹരണത്തിന് പ്രബലമായ പവർ ഘടന പ്രത്യുത്പാദന എതിർലിംഗ സംഭോഗതത്പരതയെ സാധാരണ നിലയുമായി തുലനം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഉള്ള വ്യവഹാരം സൃഷ്ടിക്കുന്നത് വളരെ പ്രയാസകരമാണ് അതിനാൽ ഒരു സമൂഹത്തിൽ സ്വവർഗരതിയുടെ സ്ഥാനം അടിവരയിടുന്നത് റീപ്രഡക്റ്റിവ് ഹെക്ടറോനോർമറ്റിവിറ്റി എന്ന ഒരു പദമാണ് ഇതാണ് സ്പിവക് ഉപയോഗിക്കുന്നത് അടിസ്ഥാനപരമായി പ്രത്യുൽപാദന ഭിന്നലിംഗ ലൈംഗികതയെ ലൈംഗികതയുടെ ഒരേയൊരു സാധാരണ രീതിയായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിൽ സ്വവർഗരതിക്കാർ സബാൾട്ടേണിൻറെ സ്ഥാനം ഏറ്റെടുക്കുന്നു കാരണം സ്വവർഗരതിയെക്കുറിച്ചുള്ള സ്വവർഗരതിക്കാരുടെ വ്യവഹാര നിർമ്മാണം ആ സമൂഹത്തിൽ അസാധ്യമാണ് കൂടാതെ ഇത് ഒരു വ്യക്തിയുടെ സ്വന്തം ഐഡന്റിറ്റി നിർവചിക്കാൻ പ്രാപ്തമാക്കുന്ന ഏജൻസിയിലേക്ക് പ്രവേശനം നിരസിക്കുന്ന എതിർപ്പിൻറെയും ബലഹീനതയുടെയും സ്ഥാനമാണ് ഈ സബാൾട്ടൻ സ്ഥാനത്ത് നിന്ന് വ്യവഹാരം സൃഷ്ടിക്കുന്നത് അസാധ്യമാണ് എന്നിരുന്നാലും സംസാരിക്കുക എന്ന മൂർത്തമായ പ്രക്രിയ സബാൾട്ടേണിൻറെ തലത്തിൽ നിന്ന് അസാധ്യമാണെന്ന് പറയാനാവില്ല പക്ഷേ ഈ ഭാഷണം ഒരിക്കലും സാമൂഹിക രാഷ്ട്രീയ ഏജൻസിയുടെ ഭാരം വഹിക്കുന്ന സ്വാർത്ഥതാൽപര്യവും സ്വത്വവും പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമായ അർത്ഥവത്തായ സംസാരങ്ങൾ ആയി അംഗീകരിക്കപ്പെടുന്നില്ല അതിനാൽ ചില പണ്ഡിതന്മാർ വാദിക്കുന്നത് സബാൾട്ടണിന് സംസാരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നതിനുപകരം സബാൾട്ടണിനെ സമൂഹത്തിന് കേൾക്കാൻ കഴിയില്ലെന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം എന്നാണ് ഇത് ഭ്രാന്തൻറെ പ്രസംഗം സമൂഹം ശൂന്യമായി കണക്കാക്കുന്നതിനാൽ അയാളെ ആരും കേൾക്കുന്നില്ല എന്നത് പോലെയാണ് ഇപ്പോൾ സ്പിവാക്കിൻറെ ഉൾക്കാഴ്ചയുടെ അത്തരം പുനക്രമീകരണം തികച്ചും ശരിയാണ് "സബാൾട്ടണിന് സംസാരിക്കാൻ കഴിയില്ല" "സബാൾട്ടണിനെ കേൾക്കാൻ കഴിയില്ല" എന്നീ രണ്ട് പ്രസ്താവനകളും സബാൾട്ടൻ സ്ഥാനത്ത് നിന്ന് വ്യവഹാരം സൃഷ്ടിക്കാനുള്ള അതേ കഴിവില്ലായ്മയെ ആണ് സൂചിപ്പിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു ഇതൊരു സങ്കീർണ്ണ പ്രശ്നമാണ് ഇത് അടുത്ത രണ്ട് പ്രഭാഷണങ്ങളിൽ കൂടുതൽ വ്യക്തമാകും അവിടെ നാം വീണ്ടും ഈ സബാൾട്ടൻ എന്ന ആശയവും സ്പിവാക്കിൻറെ രചനകളും എടുക്കും അവ നാം മഹാശ്വേതാദേവിയുടെ ഒരു ചെറുകഥയിൽ പ്രയോഗിക്കും ഗായത്രി സ്പിവക് തന്നെ വിവർത്തനം ചെയ്ത മഹാശ്വേതാദേവിയുടെ ഈ കഥയുടെ സഹായത്തോടെ സബാൾട്ടൻ എന്ന ആശയം വായിച്ചാൽ സങ്കീർണ്ണമായ സബാൾട്ടൻ സ്ഥാനത്തെക്കുറിച്ചും സംഭാഷണത്തിൻറെ സാധ്യതഅസാധ്യതയെക്കുറിച്ചും കൂടുതൽ വ്യക്തമാകുമെന്ന് ഞാൻ കരുതുന്നു ഈ ചർച്ച നാം അടുത്ത പ്രഭാഷണത്തിൽ തുടരും